പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് I ഹലോ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നിവയെക്കുറിച്ചുള്ള NPTEL ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം നമ്മൾ മൊഡ്യൂൾ നമ്പർ 4 പ്രഭാഷണ നമ്പർ 42 ആണ് കാണാൻ പോകുന്നത് പ്രധാനമായും നമ്മൾ സോളിഡുകളുടെ പ്രൊജക്ഷൻ നോക്കുന്നു ഈ സോളിഡുകൾക്ക് പ്രധാനമായും നമുക്ക് രണ്ട് വർഗ്ഗീകരണങ്ങളുണ്ട് ഒന്ന് പോളിഹെഡ്രോൺ മറ്റൊന്ന് സോളിഡ്സ് ഓഫ് റേവൊല്യൂഷൻ പോളിഹെഡ്രയിൽ തന്നെ നമുക്ക് ടെട്രഹെഡ്രോൺ ക്യൂബ്സ് ഒക്ടാഹെഡ്രോൺ പോലുള്ള വ്യത്യസ്ത ഇനങ്ങൾ ഉണ്ട് അതിനാൽ നമ്മൾ ഈ വസ്തു ടെട്രഹെഡ്രോൺ നോക്കുകയാണെങ്കിൽ നമുക്ക് തുല്യമായ നാല് ത്രികോണാകൃതിയിലുള്ള ഫെയ്സുകൾ ഉണ്ട് അതിനാൽ ഇത് ആദ്യത്തെ ഫെയ്സ് രണ്ടാമത്തേതും മൂന്നാമത്തെയും നാലാമത്തെയും ഫെയ്സ്കൾ ഇവയാണ് അങ്ങനെ ടെട്രഹെഡ്രോണ് നാലു ഫെയ്സ്കളുണ്ട് അതുപോലെ ഇത് ഒരു ക്യൂബ് അല്ലെങ്കിൽ ഹെക്സഹെഡ്രോൺ ആണ് ഇതിനു ആറു തുല്യമായ വശങ്ങളുണ്ട് അതുപോലെ ഒക്ടാഹെഡ്രോണിനു തുല്യമായ എട്ട് ത്രികോണാകൃതിയിലുള്ള ഫെയ്സ്കൾ ഉണ്ട് ഓരോ തവണയും നമുക്ക് ഒരു സമീകൃത ത്രികോണം നിർമ്മിക്കേണ്ടിവന്നാൽ അതിനെ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അത് ഈ ഒക്ടാഹെഡ്രോൺ എന്ന് വിളിക്കുന്ന ഒരു ക്ലോസ്ഡ് വസ്തുവായി മാറുന്നു നമുക്ക് എത്ര വശങ്ങളുണ്ട് എന്നതിനെ അനുസരിച്ചു ഇരിക്കും വ്യത്യസ്ത സംഖ്യകൾ ഇന്നത്തെ ക്ലാസ്സിൽ അത്തരം വസ്തുക്കൾ ത്രിമാന സ്ഥലത്ത് അധിഷ്ഠിതമാണോയെന്ന് നമുക്ക് കാണാം തിരശ്ചീന തലം ലംബ തലം തിരശ്ചീന തലത്തിൽ അല്ലെങ്കിൽ ലംബ തലത്തിൽ ഉള്ള അപെക്സ് അവ എത്ര ഇൻക്ക്ളിനേഷൻ ആംഗിൾ നിർമ്മിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി ആ പ്ലെയിൻ ഇൻക്ലൈൻഡ് ആണോ എന്ന് നമുക്ക് മനസിലാക്കാം അതുപോലെ നമുക്ക് ഡോഡെകാഹെഡ്രോൺ ഐക്കോസഹെഡ്രോണുകൾ വ്യത്യസ്ത തരം വസ്തുക്കൾ എന്നിവയുണ്ട് ഇവ പോളിഹെഡ്രയുടെ കമാൻഡർ വിഭാഗമാണ് അതുപോലെ സോളിഡ്സ് ഓഫ് റിവൊല്യൂഷൻ എന്ന മറ്റൊരു വിഭാഗം ഉണ്ട് ഒരു കർവിനെ ഒരു അക്ഷത്തിന് ചുറ്റും തിരിക്കാൻ നിങ്ങൾ ഒരു കർവ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ത്രിമാന വസ്തുക്കൾ ലഭിക്കും പല ലൈനുകൾ തമ്മിൽ യോജിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന തലത്തിനെ നമ്മൾ ആക്സിസിനു ചുറ്റും റിവോൾവ് ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് 3 ഡൈമെന്ഷനൽ സോളിഡ്സ് ഓഫ് റിവൊല്യൂഷന്റെ രൂപത്തിൽ ഉള്ള ഒരു കോൺ ലഭിക്കും ഈ വസ്തു ആക്സിസിനു ചുറ്റും ആണ് കറങ്ങുന്നതു ഇത് ഒരു രേഖ മാത്രമാണെങ്കിൽ ഉദാഹരണത്തിന് ഈ അക്ഷത്തിന് ചുറ്റും ഒരു രേഖ കറങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു കോണിന്റെ പെരിഫറൽ ഉപരിതലം ലഭിക്കും ഉദാഹരണത്തിന് R 1 R 2 അകലെയുള്ള രേഖയാണിത് നമ്മൾ ഈ രേഖയെ റിവോൾവ് ചെയ്യിക്കുകയാണെങ്കിൽ അത് ഒരു പെരിഫറൽ ഉപരിതലമുണ്ടാക്കുന്നു ഇതിനെ കോണിക്കൽ ഫ്രസ്റ്റം എന്ന് വിളിക്കുന്നു ഇത് ഒരു തലം ആണെങ്കിൽ ഈ തലം മുഴുവൻ ഈ അക്ഷത്തിന് ചുറ്റും കറങ്ങുന്നു അപ്പോൾ നമുക്ക് ഒരു സോളിഡ്ന്റെ കോണിക്കൽ ഫ്രസ്റ്റം ലഭിക്കും അതിനർത്ഥം മെറ്റീരിയൽ ഉള്ളിലും നിറയും അതുപോലെ ഈ അക്ഷത്തിന് ചുറ്റും ഒരു രേഖ കറങ്ങുമ്പോൾ നമുക്ക് സിലിണ്ടർ ഉപരിതലം നൽകുന്നു ആ അക്ഷത്തിന് ചുറ്റും കറങ്ങുന്ന ഒരു ദീർഘചതുരാകൃതിയിലുള്ള തലം നമുക്ക് ഒരു സിലിണ്ടർ നൽകുന്നു അതുപോലെ നമുക്ക് വളവുകൾ ഉണ്ടെങ്കിൽ അത് അല്പം നീളമേറിയ അർദ്ധവൃത്തമാകാം അത് കറങ്ങുകയാണെങ്കിൽ നമുക്ക് എലിപ്സോയിഡൽ തരത്തിലുള്ള വസ്തുക്കൾ ലഭിക്കും സാധാരണയായി സ്പറിക്കൽ ജോമട്രിയിൽ നിന്ന് നിർമ്മിച്ചതിനാൽ ഇവയെ നമ്മൾ സ്ഫെറോയിഡുകൾ എന്ന് വിളിക്കുന്നു നമ്മൾ ഈ ദിശയിലേക്ക് ഒബ്ലേറ്റ് തള്ളുകയോ ആ ദിശയിലേക്ക് നീളുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒബ്ലേറ്റ് സ്ഫെറോയിഡുകൾ എന്ന് വിളിക്കുന്നു അത് ആ ദിശയിലേക്ക് നീട്ടുകയോ ഈ ദിശയിലേക്ക് തള്ളുകയോ ചെയ്താൽ അതിനെ പ്രോലേറ്റ്സ് സ്ഫെറോയിഡുകൾ എന്ന് നമ്മൾ വിളിക്കുന്നു കർവ് തലത്തിന്റെ ഏതു ഭാഗം കറക്കിയാലും നമുക്ക് വ്യത്യസ്ത തരം വസ്തുക്കൾ ലഭിക്കും സോളിഡ് പ്രൊജക്ഷനിൽ പ്രധാനമായും കോൺസ് ഫ്രസ്റ്റംസ് സിലിണ്ടെർസ് എന്നിവ വ്യത്യസ്ത പ്ലെയിനുകളിൽ എങ്ങനെ കാണപ്പെടുന്നു എന്നതിനെക്കുറിച്ചാണ് പഠിക്കുന്നത് അതുപോലെ പ്രിസം എന്ന് വിളിക്കുന്ന വ്യത്യസ്ത തരം വസ്തുക്കളുണ്ട് രണ്ട് തുല്യ സമാന്തര റെഗുലർ പോളിഗോണുകളാൽ parallel regular polygons രൂപംകൊണ്ട പോളിഹെഡ്രോൺ അതിന്റെ എൻഡ് ഫേസ് ദീർഘചതുരങ്ങളോ പാരല്ലെലോഗ്രാംസ് ആയ സൈഡ് ഫേസ് ആയി ബന്ധിപ്പിച്ചിരിക്കുന്നു അത്തരം വസ്തുക്കളെ നമുക്ക് പ്രിസം എന്ന് വിളിക്കാം ഇത് ഒരു ചതുരം അല്ലെങ്കിൽ ദീർഘചതുരം ആണ് പുറകുവശത്ത് മറ്റൊരു ദീർഘചതുരം ചുവടെ മറ്റൊരു ദീർഘചതുരം ഇത്തരത്തിലുള്ള വസ്തു നിറച്ച സമ്പൂർണ്ണ വോളിയം അതിനെ ത്രികോണ പ്രിസം എന്ന് വിളിക്കുന്നു സ്ക്വയർ പ്രിസങ്ങൾ ലഭിക്കാൻ ഈ ദീർഘചതുരങ്ങളെ ചതുരമാക്കി മാറ്റുന്ന രീതിയിൽ ബന്ധിപ്പിക്കണം അതുപോലെ ഈ പെന്റഗണിലുടനീളം ബന്ധിപ്പിക്കുന്നതിന് ദീർഘചതുരങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് പെന്റഗൺ പ്രിസം ലഭിക്കും അതിനുള്ളിൽ മെറ്റീരിയൽ ഫിൽ ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ അതിനെ സോളിഡ് എന്ന് വിളിക്കുകയുള്ളൂ അതുപോലെ ഈ ദീർഘചതുരങ്ങൾ ഹെക്സഗണൾ ചട്ടക്കൂടിലും ഒരുപക്ഷേ ഒക്ട്ഗണൾ ചട്ടക്കൂടിലും ബന്ധിപ്പിച്ചിരിക്കുന്നു അത് വൃത്തമാണെങ്കിൽ നമുക്ക് സിലിണ്ടറുകൾ ലഭിക്കും പ്രിസങ്ങൾക്ക് ശേഷം പിരമിഡുകൾ എന്ന മറ്റൊരു വസ്തു ഉണ്ട് പിരമിഡ് എന്നാൽ ഒരു പോളിഹെഡ്രോണാണ് അതിന്റെ ബേസ് ഒരു പ്ലെയിൻ സർഫേസും വശങ്ങൾ ത്രികോണങ്ങളും ആയിരിക്കും ഇവയെല്ലാം വെർട്ടെക്സ് അല്ലെങ്കിൽ അപ്പക്സ് എന്ന് വിളിക്കുന്ന ഒരു പോയിന്റിൽ കണ്ടുമുട്ടണം ഉദാഹരണത്തിന് നമുക്ക് ഒരു ത്രികോണ പിരമിഡ് എടുക്കാം നമുക്ക് ഈ ത്രികോണങ്ങളുണ്ട് ഇവയെല്ലാം ഒരു പോയിന്റിൽ കണ്ടുമുട്ടുന്നു ഇത് അപ്പക്സ് അല്ലെങ്കിൽ വെർട്ടെക്സ് ആണ് അതുപോലെ നമുക്ക് ത്രികോണാകൃതിയിലുള്ള ഫെയ്സ്കളുള്ള ചതുര പിരമിഡ് തിരഞ്ഞെടുക്കാം എല്ലാം വീണ്ടും ആ പോയിന്റിൽ കണ്ടുമുട്ടുന്നു ഇവിടെ ഈ സാഹചര്യത്തിൽ ബേസ് ഒരു ചതുരമാണ് അതിനാൽ ഇതിനെ ഒരു ചതുര പിരമിഡ് എന്ന് വിളിക്കുന്നു അതുപോലെ പെന്റഗണിന്റെ അടിത്തറയുള്ള ചതുരാകൃതിയിലുള്ള പിരമിഡും ഹെക്സഗണൾ ഒക്ട്ഗണൾ പിരമിഡുകളും നമുക്ക് കാണാനാകും നമുക്ക് ഒരു പിരമിഡ് ഉണ്ടെങ്കിൽ അതിൽ ഒരു കഷണം എടുക്കുക 90 ഡിഗ്രി ഉണ്ടാക്കുന്ന പിരമിഡാണിത് പകുതി ചെറുതായി ചരിഞ്ഞ ഒന്ന് ഈ തലത്തിന്റെ ഒരു കഷണം എടുക്കുകയാണെങ്കിൽ അവശേഷിക്കുന്ന ഒരു ഭാഗമുണ്ട് അതിനെ നമ്മൾ ഫ്രസ്റ്റം എന്ന് വിളിക്കുന്നു അതിന്റെ മുകളിലെ അപ്പക്സ് ഭാഗം നീക്കം ചെയ്യേണ്ടതുണ്ട് അതുപോലെ നമുക്ക് ഒരു കോൺ ഉണ്ടെങ്കിൽ അത് ശരിയായ വൃത്താകൃതിയിലുള്ള കോണാകാം അല്ലെങ്കിൽ ഒരുപക്ഷേ അത് ചരിഞ്ഞ അരികാകാം ഈ അപ്പക്സ് ഭാഗം നീക്കംചെയ്ത് ഈ തലത്തിൽ ഒരു കഷ്ണം ഉണ്ടാക്കുകയാണെങ്കിൽ അവശേഷിക്കുന്ന ഭാഗത്തെ ഒരു കോണിന്റെ ഫ്രസ്റ്റം എന്ന് നമുക്ക് വിളിക്കാം അതിനാൽ മുറിച്ച പിരമിഡുകൾക്ക് അത്തരം ആകൃതി ഉണ്ട് അതിന്റെ മുകളിലെ ഭാഗം നീക്കം ചെയ്യുന്നു ദൃശ്യമാകാത്തതും ഒരുപക്ഷേ പുറകുവശത്തുള്ളതുമായ രേഖകൾ എല്ലാം സാധാരണയായി ഡാഷ് ചെയ്ത രേഖകൾ ആയി കാണിക്കുന്നു ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പുറകുവശം കാണാൻ കഴിയില്ല ഇത് ഒരു സോളിഡ് വസ്തുവായതിനാൽ അത് ഡാഷ് ചെയ്ത രേഖകളിലൂടെ കാണിക്കും അതിനാൽ ഈ സോളിഡുകൾ വരയ്ക്കുമ്പോൾ പിന്തുടരേണ്ട കുറച്ച് ടിപ്പുകൾ ഉണ്ട് പ്രത്യേകിച്ചും ഒരു വസ്തുവിന്റെ ഓർത്തോഗ്രാഫിക് വ്യൂകൾ വരയ്ക്കുമ്പോൾ മറഞ്ഞിരിക്കുന്ന ചില വിശദാംശങ്ങൾ അദൃശ്യമായി കാണിക്കേണ്ടതുണ്ട് അത് ഒരു ദ്വിമാന വസ്തുവല്ല ഒരു ത്രിമാന വസ്തുവാണെന്ന തോന്നൽ നൽകുന്നു ഓർത്തോഗ്രാഫിക് വ്യൂകളിൽ ഡാഷ് ചെയ്ത രേഖകളാൽ ഇവ കാണിക്കുന്നു ഉദാഹരണത്തിന് നമുക്ക് ഒരു ചതുരം ഉണ്ടെങ്കിൽ പുറകു വശത്തെ ഉപരിതലത്തിനെ ഒരു ഡാഷ് ചെയ്ത വരയിലൂടെ കാണിക്കുന്നു ഉദാഹരണത്തിന് നമ്മൾ ഈ ദിശയിൽ നിന്നാണ് നോക്കുന്നത് എന്നിരിക്കട്ടെ അപ്പോൾ ഈ ക്യൂബ് ഇതുപോലെ തോന്നുന്നു ഈ വ്യൂവിൽ നിന്നും നോക്കുകയാണെങ്കിൽ ഈ രേഖ ദൃശ്യമാകും ചില കേസുകളിൽ ഈ രേഖകൾ മുൻപോട്ടോ പുറകോട്ടോ പോകാം ഈ ഓർത്തോഗ്രാഫിക് വ്യൂസിന്റെ പ്രൊജക്ഷനുകൾ കാണിക്കുമ്പോൾ നമ്മൾ സാധാരണ പിന്തുടരുന്ന രീതി ഇതാണ് ഉദാഹരണത്തിന് നമുക്ക് ഒരു ഫ്രസ്റ്റം പരിഗണിക്കാം അതിനർത്ഥം ചില ഭാഗം നീക്കം ചെയ്ത ഒരു വസ്തു നിർവചനം അനുസരിച്ച് ഒരു കോൺ അല്ലെങ്കിൽ പിരമിഡ് തരത്തിലുള്ള ആകൃതി അല്ലെങ്കിൽ ഒരുപക്ഷേ പെന്റഗൺ ആകൃതിയിൽ ആയിരിക്കാം ഫ്രസ്റ്റം കാണപ്പെടുന്നത് നമ്മൾ നീക്കം ചെയ്ത ഭാഗത്തിന്റെ അപ്പക്സ് ഭാഗമാണ് ഇത് അതായത് ഈ സാഹചര്യത്തിൽ ഈ പെന്റഗണിന്റെ വലുപ്പം ഈ പെന്റഗണിന്റെ വലുപ്പത്തേക്കാൾ വളരെ ചെറുതാണ് ഈ രേഖകൾ ദൂരെ ഇന്റർസെക്ക്ട് ചെയ്യുകയും അപ്പക്സ് പോലെയാക്കുന്നു എന്നിട്ടു അത് നീക്കം ചെയുമ്പോൾ ശേഷിക്കുന്ന ഭാഗം ഇതാണ് ഇതാണ് ഫ്രസ്റ്റം അതിനാൽ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡ്രോയിംഗിൽ സ്വാഭാവികമായും അത് അക്ഷരങ്ങളാൽ പ്രതിനിധീകരിക്കേണ്ടതുണ്ട് സ്റ്റാൻഡേർഡ് രീതിയിൽ ഈ ത്രിമാന തരത്തിലുള്ള വസ്തുക്കളെ വലിയ അക്ഷരങ്ങളിലൂടെയും പ്രൊജക്ഷനുകളെ ചെറിയ അക്ഷരങ്ങളിലൂടെയും പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഈ രേഖകൾ കടന്നുപോകുന്ന ഈ അരികുകകളുടെ ഭാഗം A B C D E എന്ന് വിളിക്കാം അതുപോലെ ചുവടെയുള്ളവയെ നമുക്ക് A1 B1 C1 D1 E1 എന്ന് വിളിക്കാം വിസ്തീർണ്ണം പൂർണ്ണമായും സോളിഡ് ആണ് ഈ രേഖ പുറകുവശത്താണ് ഡാഷ് ചെയ്ത രേഖകളിലൂടെ ഇത് കാണിക്കുന്നതിനുള്ള ഒരു കാരണമാണിത് അതേസമയം ഈ രേഖകൾ നമുക്ക് മുന്നിൽ എല്ലായ്പ്പോഴും ദൃശ്യമാണ് രണ്ടാമത്തെ കാര്യം അരികുകൾ എല്ലായ്പ്പോഴും ദൃശ്യമാണ് നമ്മൾ ഏതെങ്കിലും വസ്തു പിൻവശത്ത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് പ്രൊജക്ഷനിൽ കാണാൻ സാധിക്കില്ല പക്ഷേ മുൻവശത്തെ അരികുകൾ എല്ലായ്പ്പോഴും ദൃശ്യമാണ് ഇരുണ്ട തുടർച്ചയായ രേഖകളിലൂടെ നമ്മൾ ഇത് കാണിക്കുന്നതിന്റെ ഒരു കാരണം കൂടിയാണിത് ഡാഷ് ചെയ്ത രേഖകളാൽ കാണിക്കുന്നത് അദൃശ്യമായ ലൈനുകൾ ആണ് ഘട്ടം ഘട്ടമായി ഈ ABCD നിബന്ധനകൾ നമുക്ക് ശ്രദ്ധാപൂർവ്വം നോക്കാം നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന പോയിന്റാണ് ABCD ഇവ ദൃശ്യമാണ് അതിനാൽ ടോപ് വ്യൂവിൽ നമ്മൾ അത് തുടർച്ചയായ രേഖകളിലൂടെ കാണിക്കുന്നു ഇപ്പോൾ നമുക്ക് അരികുകൾ നോക്കാം അരികുകൾ ab bc cd എന്നിവയാണ് ഇവ ടോപ് വ്യൂവിൽ പൂർണ്ണ രേഖകളായിരിക്കണം ഉദാഹരണത്തിന് നമ്മൾ ഈ ദിശയിൽ നിന്ന് നോക്കുന്നു ഇത് ഫ്രന്റ് വ്യൂ അല്ലെങ്കിൽ ടോപ് വ്യൂവോ ആകാം ടോപ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഇതാണ് തിരശ്ചീന തലം ഇതാണ് ലംബ തലം X കോർഡിനേറ്റ് Y കോർഡിനേറ്റുകൾ എന്നിവ ദൃശ്യമാണ് അതിനാൽ ഒരുപക്ഷേ നമ്മുടെ പെന്റഗൺ ആ രീതിയിൽ കാണുന്നു കാരണം നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്നു അത് ഒരു സോളിഡ് വസ്തുവാണ് അത് നേരിട്ട് സുതാര്യമായ കാര്യമല്ല അതിനാൽ ടോപ് വ്യൂവിൽ ഈ A1 B1 C1 D1 E1 എന്നിവ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷേ ഈ വിസ്തീർണ്ണം ഈ വിസ്തീർണ്ണത്തേക്കാൾ ചെറുതാണ് വിസ്തീർണ്ണത്തേ ഏരിയ നോട്ട് ഏരിയ1 എന്ന് വിളിക്കാം ഏരിയ നോട്ട് ഏരിയ1 നേക്കാൾ വലുതാണ് അങ്ങനെയാണെങ്കിൽ ഇത് ഒരു ഫ്രസ്റ്റം ആണ് ഈ വിസ്തീർണ്ണത്തേ പൂർണ്ണമായും ചിത്രത്തിൽ പ്രതിനിധീകരിക്കാൻ താൽപ്പര്യപ്പെടുന്നെങ്കിൽ ഇവ ആ വസ്തുവിന്റെ ഉള്ളിൽ വരുന്നു അതിനാൽ ടോപ് വ്യൂവിൽ ഈ ചുവടെയുള്ളത് അദൃശ്യമാണ് കൂടാതെ ഈ ab bc cd ea എന്നിവ ടോപ് വ്യൂവിൽ പൂർണ്ണ രേഖകളാണ് അതിനാൽ നിങ്ങൾ a b c d e ദൃശ്യമായി പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ ഈ A1 B1 C1 D1 E1 ഇവ അദൃശ്യമാണ് അതിനാൽ a1 b1 c1 d1 e1 എന്നിങ്ങിനെ ആണ് എഴുതേണ്ടത് അതുപോലെ ദൃശ്യമാകുന്ന പോയിന്റും അദൃശ്യ പോയിന്റും ബന്ധിപ്പിക്കുന്ന ഏതൊരു രേഖയും ഒരു ഡാഷ് ഇൻവിസിബിൾ രേഖയാണ് ഉദാഹരണത്തിന് ഇത് ഒരു ആംഗിൾ ഇൻറെ ഫ്രസ്റ്റം ആണ് ഉദാഹരണത്തിന് ഈ പോയിന്റ് A ഈ A1 ലേക്ക് ബന്ധിപ്പിക്കുന്നു ടോപ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഈ രേഖ കാണുന്നില്ലേ നമ്മൾ കാണുന്നത് മുകളിലുള്ള പെന്റഗൺ ആണ് ചുവടെയുള്ളത് അദൃശ്യമാണ് ടോപ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഈ രേഖ അതിനകത്തേക്ക് പോകുന്നു അതിനാൽ ഇത് നമ്മുടെ ദൃശ്യപരതയ്ക്ക് അതീതമാണ് ഏത് കണക്ഷനും നമ്മൾ ഈ A1 മുതൽ A1 വരെ പ്രതിനിധീകരിക്കുമ്പോൾ അത് എല്ലായ്പ്പോഴും അദൃശ്യമാണ് പോയിന്റ് A ദൃശ്യമാണ് A1 അദൃശ്യ പോയിന്റാണ് ഇവ ബാഹ്യരേഖകളല്ലെങ്കിൽ അവ ഡാഷ് ലൈനുകൾ ഉപയോഗിച്ചും എഡ്ജ് തരത്തിലുള്ളവ തുടർച്ചയായ രേഖകളിലൂടെയും കാണിക്കേണ്ടതുണ്ട് നമുക്ക് ടോപ്പ് വ്യൂ എടുക്കാം അതിനാൽ X Y തലം ഒരു തിരശ്ചീന തലം ED AE AB BC CD എന്നിവ ദൃശ്യമാണ് ഇത് എല്ലായ്പ്പോഴും ദൃശ്യമാണ് ഉള്ളിൽ കാണാനാകില്ല അതുപോലെ നമ്മൾ A മുതൽ A1 വരെ നോക്കുമ്പോൾ ഒരു രേഖയുണ്ട് അതിനാൽ നമുക്ക് മറ്റെന്തെങ്കിലും നിറം ഉപയോഗിക്കാം ടോപ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഈ രേഖ ദൃശ്യമാകില്ല അതുപോലെ നമുക്ക് C പോയിന്റിനെ C1 പോയിന്റുമായി ബന്ധിപ്പിക്കാം ഇതും അദൃശ്യമാണ് അതിനാൽ C2 C1 അദൃശ്യമാണ് അതുപോലെ D മുതൽ D1 വരെയും ഈ രീതിയിൽ നമുക്ക് ജോയിൻ ചെയ്യാം നമുക്ക് ഫ്രന്റ് വ്യൂ നോക്കുമ്പോൾ ഈ പോയിന്റുകൾ അതിലേക്ക് മാപ്പു ചെയ്യുന്നതായി കാണാം അതുപോലെ ഈ പോയിന്റ് ഈ C1 ലേക്ക് മാപ്പു ചെയ്തിരിക്കുകയാണ് അതുപോലെ ഓരോ പോയിന്റുകളും a പോയിൻറ് e പോയിൻറ് d മുതൽ d c മുതൽ c b മുതൽ b എന്നിവയും മാപ്പു ചെയ്തു ഈ മാപ്പുകളെ ബന്ധിപ്പിക്കുന്ന രീതിയാണിത് മറ്റൊരു വ്യൂവിൽ നിന്ന് നമുക്ക് ഈ ചരിഞ്ഞ അരിക് കാണാം ആ ചരിഞ്ഞ അരിക് ഇതാണ് കാരണം നമ്മൾ ഫ്രന്റ് വ്യൂവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ E E1 അറിയില്ല അതിനാൽ ഡാഷ് ചെയ്ത രേഖകൾ ഉപയോഗിച്ച് E 1 E 'ലേക്ക് ബന്ധിപ്പിക്കുക അതുപോലെ പോയിന്റ് D മുതൽ D1 വരെയും ഫ്രന്റ് വ്യൂവിൽ അദൃശ്യമാണ് അതിനാൽ ഡാഷ് ചെയ്ത രേഖകളിലൂടെ അവയുമായി യോജിപ്പിക്കുക ഇപ്പോൾ B മുതൽ B1 വരെ എല്ലായ്പ്പോഴും ഫ്രന്റ് വ്യൂവിൽ ദൃശ്യമാകും സൈഡ് വ്യൂവിന്റെ കാര്യമോ അതിനായി നമുക്ക് ആ വശത്ത് നിന്ന് നോക്കണം നമ്മൾ ആ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഈ രേഖകളെല്ലാം ദൃശ്യമാണ് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ A A 1 നമുക്ക് കാണാനാകും സൈഡ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഈ B B1 ഉം E E1 ഉം ദൃശ്യമാകും ഇത് ഒരു പെന്റഗൺ ആയതിനാൽ സ്വാഭാവികമായും ഈ രേഖയുടെ കാര്യത്തിൽ അസിമട്രി ഉണ്ട് അതിനാൽ നമ്മൾ ഇടത് വശത്ത് നിന്ന് നോക്കുന്നത് കാരണം ഈ AE ലൈൻ നീളമേറിയതാകാം ഈ AB ലൈൻ ചെറുതുമാകാം ഇപ്പോൾ നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം ഒരു തിരശ്ചീന തലത്തിൽ ഒരു സിലിണ്ടർ അല്ലെങ്കിൽ കോൺ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ കാണപ്പെടുന്നു സോളിഡ് പ്രൊജക്ഷനുകൾ എന്തൊക്കെയാണ് അതിനാൽ നമുക്ക് ഈ സിലിണ്ടർ പരിഗണിക്കാം അത് സോളിഡ് ആണ് അക്ഷം അതാണ് ഈ സിലിണ്ടർ ഒരു തിരശ്ചീന തലത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു അതിനാൽ വീണ്ടും 3 ഡി ചിത്രം നിർമ്മിക്കുക ഇതാണ് ലംബ തലം ഇതാണ് തിരശ്ചീന തലം അതിനർത്ഥം ഇത് സിലിണ്ടറിന്റെ ആകൃതി ഇങ്ങനെയായിരിക്കാം കാരണം ചില ഭാഗം അദൃശ്യമാണ് ഈ ഭാഗം ഡാഷ് 1 ഈ വ്യൂവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ പോയിന്റുകൾ അവിടെയെല്ലാം മാപ്പുചെയ്യപ്പെടും അതിനാൽ നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള ഒരു ദീർഘചതുരമാണ് ഇത് ഒരു സർക്കിളിലേക്ക് മാപ്പുചെയ്തു ഇത് തിരിക്കുമ്പോൾ ഈ സർക്കിൾ ലഭിക്കുന്ന സ്ഥലമാണിത് അതിനാൽ നമ്മുടെ ഈ പ്രൊജക്ഷൻ തലത്തിൽ നമുക്ക് ഇത് നിരീക്ഷിക്കാൻ സാധിക്കുമോ ആ വശത്ത് ഒരു നിശ്ചിത ദൂരത്തിലുള്ള നിരവധി അരികുകളുള്ളതിനാൽ അത് കാണാനുള്ള ഒരു സ്ഥാനത്ത് നമ്മൾ ഉണ്ടാകും കൂടാതെ ഈ ബേസ് തിരശ്ചീന തലത്തിൽ വിശ്രമിക്കുന്നു ഇത് XY അക്ഷത്തിൽ കാണപ്പെടാനുള്ള ഉള്ള ഒരു കാരണമാണ് രണ്ടാമത്തെ കാര്യം സിലിണ്ടറുകൾ ഉള്ള സിമട്രിക്ക് വസ്തുക്കൾ വരയ്ക്കുമ്പോഴെല്ലാം ആക്സിസ് ഡാഷ് ഡോട്ട് ലൈനുകളിൽ കാണിക്കുന്നു അതുപോലെ ആദ്യത്തെ സർക്കിൾ ഡാഷ് ഡോട്ട് ലൈനുകളും വരക്കാം ഇപ്പോൾ തിരശ്ചീന തലത്തിൽ ഒരു കോൺ വിശ്രമിക്കുന്നുവെങ്കിൽ അത് എങ്ങനെയാണ് സമാനമായി കാണപ്പെടുന്നത് ഇതാണ് തിരശ്ചീന തലം ലംബ തലം ഈ അരിക് പ്രൊജക്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ലഭിക്കുന്നത് ഒരു ത്രികോണമാണ് തിരശ്ചീന തലത്തിൽ പ്രൊജക്റ്റ് ചെയുമ്പോൾ ഒരു ഒരു സർക്കിൾ കാണുകയും ഈ തിരശ്ചീന തലത്തിലേക്ക് അത് തിരിക്കുകയും ചെയ്യുന്നു തുടർന്ന് നമ്മൾ അതിനെ ഒരു സർക്കിളായി കാണും തിരശ്ചീന തലത്തിൽ വ്യത്യസ്ത ദിശകളിൽ ഒരു പ്രിസം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഈ അരികുകളിലൊന്ന് വ്യത്യസ്ത ഇൻക്ക്ളിനേഷൻ ആംഗിൾ ഉണ്ടാക്കുന്നുവെങ്കിൽ അത് എങ്ങനെ കാണപ്പെടുന്നു ഉദാഹരണത്തിന് ബേസിലെ അരികുകളിലൊന്ന് ഈ ലംബ തലത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു അതിനാൽ ഇതാണ് തിരശ്ചീന തലം ലംബ തലം പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്തരം ക്രമീകരണം ഉണ്ടാകും അരികുകൾ നമ്മുടെ തിരശ്ചീന തലത്തിന് സമാന്തരമായി തിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ടോപ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ തിരശ്ചീന തലത്തിൽ പ്രൊജക്ഷൻ എല്ലായ്പ്പോഴും ഒരു ദീർഘചതുരമായിരിക്കും എന്നാൽ ലംബ തലത്തിലേക്കു പ്രൊജക്റ്റ് ചെയുമ്പോളും നമുക്ക് ഇത് കാണാൻ സാധിക്കുംഈ ദീർഘചതുരത്തിൽ അരിക് എപ്പോഴും നമുക്ക് കാണാൻ കഴിയും ഈ അരികിലൂടെ കടന്നു പോകുന്ന ലൈനിനെ ഒരു രേഖയായി കാണും ഈ ദീർഘചതുരാകൃതിയിലുള്ള ഫെയ്സ് ലംബ തലത്തിൽ ഒരു ഇൻക്ക്ളിനേഷൻ ആംഗിൾ വരത്തക്ക വിധത്തിൽ തിരിക്കുക ഉദാഹരണത്തിന് ഇത് ഈ രീതിയിൽ ചെറുതായി കറങ്ങുന്നു തുടർന്ന് ശേഷിക്കുന്ന അരികുകളും കറങ്ങുന്നു തുടർന്ന് നമ്മൾ ഈ അഗ്രം കാണും കൂടാതെ നമുക്ക് ഈ രേഖകൾ ഉണ്ടാകും അക്ഷം ഡാഷ് ഡോട്ട് ലൈനുകൾ കാണിക്കുന്നു ഇവിടെ ഫെയ്സ്കളിലൊന്ന് ഈ സമാന്തരമാണ് ഇത് X ആക്സിസ് ആയി ഈ അരിക് കൂട്ടിമുട്ടുന്നു ചെയുന്നു അതുകൊണ്ടാണ് തുടർച്ചയായ ഒരു രേഖ കാണിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇത് അരിക് ആണ് ഇത് മാപ്പ് ആണ് പക്ഷേ അക്ഷം ഇപ്പോഴും അദൃശ്യമാണ് അതിനാൽ നമ്മൾ ഒരു ഡാഷ് ചെയ്ത വരയിലൂടെയാണ് കാണിക്കുന്നത് ഈ വസ്തുക്കളെ ചെറുതായി തിരിക്കുക ഈ പോയിന്റ് ഈ ദിശയിലേക്ക് വരുന്നതിനാൽ ഈ പോയിന്റ് ആ ദിശയിലേക്ക് വരുന്നു ഇത് അവിടെ പോകുന്നു തിരശ്ചീന തലത്തിൽ ഈ പ്രിസം മുഴുവൻ നമ്മൾ തിരിക്കുകയാണെങ്കിൽ അതിനെ ഒരു ത്രികോണമായി കാണാൻ കഴിയും പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് എല്ലായ്പ്പോഴും അരിക് ആണ് അതിനാൽ നമുക്ക് ഈ രേഖയുണ്ട് അത് കൂട്ടിമുട്ടുന്നു ഈ ദിശയിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഫേസും അരിക്കും നമുക്ക് കാണാനാകുന്ന അവസ്ഥയിലായിരിക്കും അതിനാൽ ഈ ഫേസ് ചെറിയ തരം ദീർഘചതുരത്തിലേക്ക് ചുരുങ്ങി കൂടാതെ ആക്സിസിനെ ഡാഷ് ചെയ്ത ഡോട്ട് ലൈൻസ് ആയിട്ടു മാപ്പ് ചെയ്തു ഇപ്പോൾ ഇവിടെയുള്ള ഈ വസ്തുവിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽഉദാഹരണത്തിന് ഫ്രണ്ട് വ്യൂ കാണാൻ സാധിക്കുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുകയാണെങ്കിൽ ഈ ദിശകൾ ഫ്ലിപ്പു ചെയ്താൽ ഈ അരിക് പുറകിലേക്കും ഇത് മുൻവശത്തേക്കും വരുന്നു അതിനാൽ ഇതാണ് കോൺഫിഗറേഷൻ നമുക്ക് എന്ത് ലഭിക്കും അതിനർത്ഥം അതിലൂടെ കടന്നുപോകുന്ന ലംബ തലത്തിൽ എന്തായാലും ഈ രേഖ ദൃശ്യമാകില്ല അതിനാൽ a b പോയിന്റുകൾ a1 b1 ലേക്ക് മാപ്പുചെയ്യുന്നു ഈ ലൈനുകളും ടോപ് ഫേസും നമുക്ക് കാണാം എന്നാൽ ഈ രേഖ കാണാൻ സാധിക്കില്ല അതിനാൽ ഇത് ഡാഷ് ചെയ്ത രേഖയിൽ കാണിക്കുന്നു അടുത്ത ക്ലാസ്സിൽ ഈ സോളിഡുകളെ എങ്ങിനെ പ്രൊജക്റ്റ് ചെയ്യുന്നുവെന്ന് കൂടുതൽ ഉദാഹരണങ്ങളിലൂടെ കാണാം